ഇതേ തരത്തിൽ ഒരേ സമയം വലത് ഭാഗത്തുള്ള മൂന്ന് വിലകൾ ഇടത് ഭാഗത്തുള്ള മൂന്ന് ചരങ്ങൾക്ക് നൽകുവാൻ സാധിക്കുമെന്ന് നാം മനസ്സിലാക്കി ഇവ റൌണ്ട് ബ്രാക്കറ്റിനുള്ളിൽ കൊടുത്തിരിക്കണം അതുകൊണ്ട് ഇത്തരത്തിൽ റൌണ്ട് ബ്രാക്കറ്റിനുള്ളിൽ ശ്രേണിയായി കൊടുത്തിരിക്കുന്ന വിലകൾക്ക് പറയുന്ന പേരാണ് ടുപിൾ സാധാരണയായി നാം പെയേർസ് ട്രിപ്പിൾസ് ക്വാഡ്രൂപ്പിൾസ് pairs triples quadruples എന്നിവയെപ്പറ്റി പറയാറുണ്ട് എന്നാൽ പൊതുവായി അത് k യ്ക്ക് നൽകുകയാണെങ്കിൽ നമുക്കതിനെ k ടുപ്പിൾസ് എന്ന് വിളിക്കാം പൈത്തണിൽ ടുപ്പിൾസും സാധുവായ വിലകളാണ് നിങ്ങൾക്ക് ഒരു പേരിലേക്ക് ഒരു ടുപ്പിളിന്റെ വിലകൾ നൽകുവാൻ സാധിക്കും ഉദാഹരണത്തിന് x കോ ഓർഡിനേറ്റ് 3 5 ഉം 4 8 ഉം ഉള്ള ഒരു two dimensional ദ്വിമാന point എടുത്താൽ ആ point ന് 3 5 4 8 എന്നീ വിലകളായിരിക്കും ഇത് ഒരു list അല്ല എന്നാൽ ഒരു tuple ആണ് Tuple എന്താണെന്ന് നമുക്ക് ഉടനെ മനസ്സിലാക്കാം അതുപോലെ ഒരു തിയ്യതി മൂന്ന് ഭാഗങ്ങൾ ചേർന്നതാണ് ഒരു ദിവസം ഒരു മാസം ഒരു വർഷം മൂന്ന് വിലകളുള്ള ഒരു triple ആയി നമുക്കിതിനെ ഉൾക്കൊള്ളിക്കാം Tuple ഒരു list പോലെ പെരുമാറുന്നു അതുകൊണ്ട് അത് ഒരു തരം ശ്രേണി ആണ് Strings ഉം list ഉം പോലെ ഒരു ശ്രേണിയിലെ ഓരോ ഘടകത്തെയും നമുക്ക് extract ചെയ്യാം അതുകൊണ്ട് point ലെ 0th വില x coordinate ആണെന്ന് നമുക്ക് പറയാം ഇത് x ൻറെ വിലയായ 3 5 എന്ന വില x coordinate എന്ന പേരിന് നൽകുന്നു അല്ലെങ്കിൽ നമുക്ക് ഒരു ഭാഗം slice എടുക്കാം അതായത് നമുക്ക് ഒരു തിയ്യതിയിൽ നിന്ന് 7 ഉം 2013 മാത്രം ലഭിക്കുവാൻ വേണ്ടി തിയ്യതിയെ ഒന്നിൽ നിന്ന് അവസാനം വരെ മുറിച്ചെടുത്താൽ മതി അതുകൊണ്ട് പലതരം sequence കളായ strings lists എന്നിവയോട് ഇതിന്റെ പെരുമാറ്റത്തിന് വളരെയേറെ സാമ്യമുണ്ട് എന്ന് നാം നേരത്തെ തന്നെ മനസ്സിലാക്കുകയുണ്ടായി എന്നാൽ ഒരു tuple ഉം list ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാൽ tuple മാറ്റാൻ പറ്റാത്തതാണ് അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ടുപ്പിൾ കൂടുതലായിട്ട് ഒരു string പോലെ പെരുമാറുന്നു ഉദാഹരണത്തിന് നമുക്ക് ഈ തിയ്യതിയിൽ 8 എന്ന വില കൊടുത്തുകൊണ്ട് ഈ തിയ്യതിയെ മാറ്റുവാൻ സാധിക്കില്ല ഇത് ഒരു list ൽ സാധ്യമാണ് എന്നാൽ ടുപ്പിളിൽ സാധ്യമല്ല അതായത് ടുപ്പിളുകൾ മാറ്റാൻ പറ്റാത്ത ശ്രേണികളാണ് അത് എന്തുകൊണ്ടാണെന്ന് ഉടനെ മനസ്സിലാക്കാം നമുക്ക് ലിസ്റ്റുകളിലേക്ക് തിരിച്ചു പോകാം കുറെ വിലകളുടെ ശ്രേണിയാണ് ഒരു ലിസ്റ്റ് 0 ത്തിൽ തുടങ്ങി ലിസ്റ്റിന്റെ ദൂരം 1 വരെയുള്ള വിലകൾ കൊടുത്തുകൊണ്ട് ഈ ശ്രേണിയിലെ ഓരോ സ്ഥാനത്തിനെയും ലിസ്റ്റിൽ വ്യക്തമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ലിസ്റ്റിലെ ഓരോ സ്ഥാനവും വിലകളുമായി മാപ്പ് ചെയ്തിരിക്കുന്നു ഇവിടെ വിലകൾ പൂർണ്ണസംഖ്യകളാണ് ഗണിതശാസ്ത്ര യുക്തിയിൽ പ്രസ്താവിക്കുകയാണെങ്കിൽ 0 1 2 3 4 എന്നിങ്ങനെയുള്ള പൂർണ്ണസംഖ്യകളുടെ മണ്ഡലത്തിന്റെ മാപ്പ് അല്ലെങ്കിൽ ഫംഗ്ഷനാണ് l എന്ന പേരുള്ള list പ്രത്യേകിച്ച് l0 യിലേക്ക് 13 l4 ലേക്ക് 72 തുടങ്ങിയ വിലകൾ ഒരു ഫംഗ്ഷന്റെ വില പോലെ നൽകിയിരിക്കുന്നു പ്രോഗ്രമിംഗ് ഭാഷയുടെ വഴിയിലൂടെ ചിന്തിക്കുകയാണെങ്കിൽ 0 1 2 3 4 എന്നിവ കീ കൾ എന്നറിയപ്പെടുന്നു അതുകൊണ്ട് ചില ഇനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിലകളാണിവ അതായത് 1 എന്ന് വിലയുള്ള കീ നമ്മൾ തിരയുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് 46 ആയിരിക്കും ലിസ്റ്റിൽ നമുക്ക് കീ കളെ കാണാം കൂടാതെ അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ലിസ്റ്റിലെ എൻട്രികളും ഉണ്ടായിരിക്കും ഇതിനെ values എന്ന് വിളിക്കാം അതായത് keys നെ values മായി ബന്ധിപ്പിക്കുവാനുള്ള ഒരു മാർഗ്ഗമാണ് list 0 മുതൽ n 1 വരെയുള്ള വിലകൾക്ക് പകരം വ്യത്യസ്തമായ ഗണത്തിൽ പെടുന്ന വിലകൾ കീ കൾക്ക് അനുവദിക്കാമെന്ന് നമുക്ക് ഈ സിദ്ധാന്തത്തെ സാമന്യവത്ക്കരിക്കാം അതായത് ഒരു സ്ട്രിങ്ങിനെ വേണമെങ്കിൽ ഒരു കീ ആയി പരിഗണിക്കാം അതായത് കളിക്കാരുടെ പേരുകൾ സൂചികയുടെ വിലകളാക്കി നമുക്കൊരു ലിസ്റ്റ് വേണമെങ്കിൽ തയ്യാറാക്കാം ഉദാഹരണത്തിന് ഒരു ടെസ്റ്റ് മാച്ചിലെ സ്കോറുകളുടെ വിവരങ്ങൾ സൂക്ഷിക്കുവാൻ ഓരോ കളിക്കാരൻറെയും പേരിനോട് ഏതൊക്കെ വിലകളണ് ബന്ധപ്പെട്ടപ്പെട്ടത് എന്ന് സൂചിപ്പിച്ചാൽ മതിയാവും അതായത് ധവാന്റെ സ്കോർ 84 പൂജാരയുടെ സ്കോർ 16 കോഹ്ലിയുടെ സ്കോർ 200 എന്നിവയാണ് മാത്രമല്ല ലിസ്റ്റിലെ വിലകളെ അതിന്റെ സ്ഥാനം കൊണ്ട് സൂചിപ്പിക്കുന്നതിന് പകരം കൂടുതൽ പൊതുവായ ഒരു list ഉപയോഗിച്ചാണ് ഈ വിവരങ്ങൾ സൂക്ഷിച്ചത് പൈത്തണിൽ ഇതിന് പറയുന്ന പേരാണ് ഡിക്ഷ്ണറി മറ്റു പ്രോഗ്രാമിംഗ് ഭാഷകളിൽ ഇതിന് അസോസിയേറ്റീവ് അറേ എന്നും വിളിക്കാറുണ്ട് ഇവിടെ നിങ്ങൾ ഇത് കണ്ടേക്കാം അതായത് ഇവിടെ കുറെ വിലകളുടെ ശേഖരം നമുക്ക് ലഭ്യമാകുന്നത് ഒരു കീ ഉപയോഗിച്ചു കൊണ്ടാണ് അത് ഒരു സ്ഥാനമല്ല പകരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സൂചിക ആണ് മാത്രമല്ല മാറാത്ത ഏത് വില വേണമെങ്കിലും ഒരു കീ ആയി ഉപയോഗിക്കാവുന്നതാണ് ഇത് അർത്ഥമാക്കുന്നത് മാറ്റാൻ പറ്റാത്ത സ്ട്രിങ്ങുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നാണ് ഉദാഹരണത്തിന് ടുപ്പിളുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാൽ ലിസ്റ്റുകൾ ഉപയോഗിക്കാൻ പറ്റില്ല അതാണ് നമ്മൾ ഇനി മനസ്സിലാക്കുവാൻ പോകുന്നത് ഡിക്ഷ്ണറിയുടെ മറ്റൊരു പ്രത്യേകത ഒരു ലിസ്റ്റിലേത് പോലെ മാറ്റാൻ പറ്റുന്നവയാണ് ഡിക്ഷ്ണറി എന്നതാണ് നമുക്കൊരു കീ ഉപയോഗിച്ച് ഒരു വില എടുക്കുകയും അതിന് പകരം വില നൽകുകയും ചെയ്യാം അതായത് നമുക്ക് പൂജാരയുടെ സ്കോർ 72 ആയി മാറ്റണമെങ്കിൽ ഡിക്ഷ്ണറിയിൽ നിലവിൽ പൂജാരയുടെ സ്കോറായ 16 ന് പകരം 72 നൽകിയാൽ മതി അതായത് ഡിക്ഷ്ണറിയെ തൽസ്ഥാനത്ത് പുതുക്കാൻ സാധിക്കും ആയതിനാൽ dictionary കൃത്യമായി ലിസ്റ്റ് പോലെ മാറ്റാൻ പറ്റുന്നവയാണ് ചില പേരുകൾ ഒരു ഡിക്ഷ്ണറി ആണെന്നും അവ ഒരു ലിസ്റ്റ് അല്ല എന്നും നമുക്ക് പറയാം കേർലി ബ്രേസുകൾ ഉപയോഗിച്ചു കൊണ്ട് നമുക്ക് ഒരു ശൂന്യമായ ഡിക്ഷ്ണറിയെ സൂചിപ്പിക്കാം ലിസ്റ്റിനെ സൂചിപ്പിക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സ്ക്വയർ ബ്രാക്കറ്റുകളാണ് ആയതിനാൽ ഒരു ഡിക്ഷ്ണറിക്ക് പ്രാരംഭ വിലകൾ നൽകാൻ നമ്മൾ മുമ്പ് കണ്ടതുപോലെ ബ്രേസുകൾ ഉപയോഗിച്ചുകൊണ്ട് test1 ഒരു ശൂന്യമായ ഡിക്ഷ്ണറിയാക്കാം മാത്രമല്ല നമ്മൾ മുമ്പ് ചെയ്തതുപോലെ ധവാൻ പൂജാര തുടങ്ങിയവ പേരുകൾ നൽകിക്കൊണ്ട് മുഴുവൻ കളിക്കാർക്കും വിലകൾ നൽകാം അതുകൊണ്ട് ഈ മൂന്ന് തരത്തിലുള്ള ശ്രേണികളും വ്യത്യസ്തമായ കാര്യങ്ങളാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് തീർച്ചയായും സ്ട്രിങ്ങിന് ഡബൾ ക്വോട്സ് അല്ലെങ്കിൽ സിംഗിൾ ക്വോട്സ് ഉം list ന് സ്ക്വയർ ബ്രാക്കറ്റുകളും ടുപ്പിളുകൾക്ക് റൌണ്ട് ബ്രാക്കറ്റുകളും ഡിക്ഷ്ണറിക്ക് ബ്രേസുകളും നമ്മൾ ഉപയോഗിക്കുന്നു അതുകൊണ്ട് ഏത് തരത്തിലുള്ള സമാഹാരമാണ് നമ്മൾ ഒരു പേരിനോട് ബന്ധപ്പെടുത്തുന്നതെന്നും ഒരു തരം കളക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുയോജ്യമായ ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് നിർവ്വചിക്കപ്പെട്ടിട്ടുള്ളതെന്നും നമ്മൾ വളരെ വ്യക്തമായി പൈത്തണിന് നിർദ്ദേശം നൽകുന്നു അതായത് ഒരു ഡിക്ഷ്ണറിയുടെ കാര്യത്തിൽ മാറ്റാൻ പറ്റാത്ത ഏത് വില വേണമെങ്കിലും കീ ക്ക് നൽകുവാൻ സാധിക്കും എന്ന് വെച്ചാൽ ഒരു പൂർണ്ണസംഖ്യയോ ഒരു float വിലയോ ഒരു ബൂളിയൻ വിലയോ ഒരു സ്ട്രിങ്ങ് അല്ലെങ്കിൽ ഒരു ടുപ്പിൾ എന്നിവയോ കീ ആയി ഉപയോഗിക്കാം എന്നാൽ ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിക്ഷ്ണറി കീ ആയി ഉപയോഗിക്കുവാൻ പാടില്ല അതായത് നമുക്ക് ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഡിക്ഷ്ണറി ഒരു ഇൻഡക്സ് വിലയായി ഉപയോഗിക്കുവാൻ സാധ്യമല്ല അതുകൊണ്ട് നമുക്ക് ഒരു ലിസ്റ്റിനകത്ത് മറ്റൊരു ലിസ്റ്റ് സാധ്യമാണ് ഇതാണ് നെസ്റ്റഡ് ലിസ്റ്റ് രണ്ട് സൂചികകളിൽ ലിസ്റ്റ് 0 എടുക്കുക അതിനു ശേഷം ലിസ്റ്റ് 0 ത്തിലെ ഒന്നാമത്തെ സ്ഥാനമെടുക്കുക ഇവിടെ നമുക്ക് രണ്ട് തലങ്ങളിലുള്ള കീകളുണ്ടായിരിക്കും ഒന്നിൽ കൂടുതൽ ടെസ്റ്റ് മാച്ചുകളുടെ സ്കോറുകളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് സൂക്ഷിക്കണമെങ്കിൽ രണ്ട് ഡിക്ഷ്ണറികൾക്ക് പകരം ഒരു ഡിക്ഷ്ണറി മതിയാവും ഇവിടെ ആദ്യത്തെ കീ test match test1 അല്ലെങ്കിൽ test2 ആയിരിക്കും രണ്ടാമത്തെ കീ കളിക്കാരൻ ആയിരിക്കും ഉദാഹരണത്തിന് വ്യത്യസ്തങ്ങളായ ആദ്യ കീകളായ test1 ഉം test2 ഉപയേഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ധവാന്റെ രണ്ട് വ്യത്യസ്ത സ്കോറുകളുടെ വിരങ്ങൾ സൂക്ഷിക്കുവാൻ സാധിക്കും അതായത് test1 ലെ സ്കോറും test2 ലെ സ്കോറും മാത്രമല്ല നമുക്ക് test2 ൽ ഒന്നിൽ കൂടുതൽ കളിക്കാരാവാം നമുക്കിവിടെ കോഹ്ലിയും ധവാനും ഒരുമിച്ച് test2 ൽ ഉൾക്കൊള്ളിക്കാം നിങ്ങൾ പൈത്തണിൽ ഒരു ഡിക്ഷ്ണറി പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഓരോ എൻട്രിയും കീ ആണെന്നും അവയ്ക്ക് പിന്നാലെ കേർലി ബ്രാക്കറ്റ് ചിഹ്നത്തിനുള്ളിൽ വിലകൾ കോളൻ മുഖേന വേർതിരിക്കപ്പെട്ടതായും കാണാം ഇത് കോമകളുപയേഗിച്ച് വേർതിരിക്കപ്പെട്ട ലിസ്റ്റിന് സമാനമാണ് മാത്രമല്ല നമുക്ക് ഒന്നിൽ കൂടുതൽ കീകളുണ്ടെങ്കിൽ അവ ഈ ഡിക്ഷ്ണറിയിലെ പ്രധാനപ്പെട്ട മൊത്തത്തിലുള്ള ഒരു എൻട്രി ആയിരിക്കും മാത്രമല്ല എനിക്ക് test1 എന്ന കീ ക്ക് ഇത്രയും വിലകളുണ്ട് test2 എന്ന കീ ക്ക് ഇത്രയും വിലകളുണ്ട് മാത്രമല്ല ആന്തരികമായി അവ വീണ്ടും ഡിക്ഷ്ണറികളാണ് അതായത് അവയ്ക്ക് സ്വന്തമായി കീ വിലകളുണ്ടായിരിക്കും ഇത് എങ്ങിനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ score എന്ന ശൂന്യമായ ഡിക്ഷ്ണറി എടുത്ത് ആരംഭിക്കാം മാത്രമല്ല നമുക്ക് കീകൾ സൃഷ്ടിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് 76 എന്ന സ്കോറാണ് ധവാന് test1 എന്ന് പേരുള്ള സ്കോറിലുള്ളത് നമുക്കിത് ഒരു പിശക് നൽകാൻ പോകുന്നു കാരണം scoretest1 ഒരു ഡിക്ഷ്ണറി ആണെന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തുടർന്ന് നമുക്ക് Dhawan എന്ന വാക്ക് ഉപയോഗിച്ചു കൊണ്ട് ഇൻഡക്സ് ചെയ്യാമെന്ന് അറിയില്ലായിരുന്നു അതിനാൽ നമുക്ക് ആദ്യം പ്രസ്താവിക്കേണ്ടത് സ്കോർ ഒരു ഡിക്ഷ്ണറി ആണ് എന്ന് മാത്രമല്ല ഒരുപക്ഷേ നമ്മൾ അതുപയോഗിക്കാനിടയുള്ളത് കൊണ്ട് scoretest1 ഉം scoretest2 ഉം ഡിക്ഷ്ണറി ആണ് ഇനി നമുക്ക് തിരിച്ച് പോയി ധവാന്റെ ഒന്നാമത്തെ ടെസ്റ്റ് സ്കോർ 76 എന്ന് നൽകാം കൂടാതെ രണ്ടാമത്തെ ടെസ്റ്റ് സ്കോർ 27 ആയും കോഹ്ലിയുടെ ഒന്നാമത്തെ ടെസ്റ്റ് സ്കോർ 200 ആയും നൽകാം ഇനി നിങ്ങൾ scores കാണാൻ എങ്ങിനെയിരിക്കുമെന്ന് കണിക്കുവാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അതിൽ test1 test2 എന്നീ രണ്ട് കീകളുള്ള നെസ്റ്റഡ് ഡിക്ഷ്ണറികളുള്ള ഒരു ഔട്ടർ ഡിക്ഷ്ണറി ആണ് എന്ന് കാണുവാൻ സാധിക്കും ഈ ഒരു നെസ്റ്റഡ് ഡിക്ഷ്ണറിയിൽ ധവാൻ കോഹ്ലി എന്നീ പേരുകളുള്ള രണ്ട് കീകളും 76 200 എന്നീ സ്കോറുകൾ വിലകളായും യഥാക്രമം നമുക്കുണ്ടായിരിക്കും Dhawan key ആയും 27 score ആയുമുള്ള ഒരു ഡിക്ഷ്ണറി എൻട്രി ആണ് test2 ലുണ്ടായിരിക്കുക നിങ്ങൾക്ക് ഒരു നെസ്റ്റഡ് ഡിക്ഷ്ണറി സംസ്കരണം നടത്തണമെങ്കിൽ നമ്മൾ അതിലുള്ള മുഴുവൻ വിലകളിലൂടെയും കടന്നുപോകണം മുഴുവൻ വിലകളിലൂടെയും കടന്നുപോകുവാനുള്ള ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ കീകൾ വേർതിരിച്ചെടുക്കുക അതിനുശേഷം ഒരോ വിലയും ഊഴമനുസരിച്ച് വേർതിരിച്ചെടുക്കുക അതായത് d keys എന്ന function d എന്ന ഡിക്ഷ്ണറിയിലെ കീകളുടെ ഒരു ശ്രേണി തിരിച്ചു നൽകുന്നു സാധാരണ നാം ചെയ്യുന്നത് dk ഉപയോഗിച്ച് d keys ലെ ഓരോ കീയിലും എന്തെങ്കിലും കാര്യം ചെയ്യുക എന്നുള്ളതാണ് ആയതിനാൽ മുഴുവൻ കീകളും ശേഖരിക്കുക ഒരു ലിസ്റ്റിലെ ഓരോ സ്ഥാനത്തെയും ആ സ്ഥാനത്തുള്ള വിലയിൽ എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുന്നതിന് തുല്യമാണിത് ഒരു ലിസ്റ്റിലെ ഓരോ കീയിലും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വില ഉപയോഗിച്ചു കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുക നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമെന്താണെന്നുവെച്ചാൽ d keys നമുക്ക് പ്രവചിക്കുവാൻ സാധിക്കാത്ത ക്രമത്തിലായിക്കും എന്നുള്ളതാണ് ഇക്കാര്യം ഒരു മിനുട്ടിനുള്ളിൽ ഞാൻ കാണിക്കാം അതായത് വളരെ പെട്ടെന്ന് ഒരു വിലയും കീയും തിരിച്ചു നൽകാൻ വേണ്ടി ഡിക്ഷ്ണറികൾ ആന്തരികമായി പരമാവധി പ്രയോജനപ്പെടുത്തുന്നു കീകൾ ഇടയിൽ വെയ്ക്കപ്പെട്ടിട്ടുള്ള ക്രമം അത് നിലനിർത്തണമെന്നില്ല keys എങ്ങിനെയാണ് നമുക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെടുക എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു കാര്യവും പ്രവചിക്കുവാൻ സാധിക്കില്ല ഏതെങ്കിലും തരത്തിൽ ക്രമികരിക്കുവാനുള്ള sorted ഫംഗ്ഷനുപയോഗിച്ച് ഇത് ചെയ്യുവാൻ സാധിക്കും for k in sortedd keys d k യെ process ചെയ്യുകയും sort ഫംഗ്ഷൻ പ്രകാരം കീകൾ സോർട്ട് ചെയ്ത ക്രമത്തിൽ നമുക്ക് ലഭിക്കുന്നു അതായത് നമ്മൾ മുമ്പ് കാണാത്ത ഒരു ഫംഗ്ഷനാണ് sorted sorted സോർട്ട് ചെയ്യപ്പെട്ട l ന്റെ ഒരു പകർപ്പ് തിരികെ നൽകുന്നു അത് മാറ്റപ്പെടുന്നില്ല നമ്മൾ ഇതുവരെ കണ്ടത് l sort എന്നാണ് അത് ഒരു ലിസ്റ്റിനെ അതിൽ തന്നെ മാറ്റം വരുത്തുന്ന ഒരു ഫംഗ്ഷനാണ് അതായത് sorted ഒരു ലിസ്റ്റിനെ ഇൻപുട്ട് ആയി എടുക്കുകുയും അതിൽ മാറ്റം വരുത്താതെ സോർട്ട് ചെയ്യപ്പെട്ട ഒരു പതിപ്പ് തിരികെ നൽകുകയും ചെയ്യുന്നു മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ d keys ഒരു ലിസ്റ്റാണെന്ന് വിശ്വസിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിലും അതൊരു ലിസ്റ്റല്ല അതൊരു range പോലെയുള്ളതാണ് കുറെ വിലകൾ അടങ്ങിയ ഒരു ശ്രേണി മാത്രമാണ് അത് അതുകൊണ്ട് d keys യിൽ നിന്ന് യഥാർത്ഥത്തിൽ ലിസ്റ്റ് നിർമ്മിക്കണമെങ്കിൽ list എന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കണം അതുകൊണ്ട് കീകൾ ഒരു പ്രത്യേക ക്രമത്തിൽ സൂക്ഷിക്കപ്പെടുന്നില്ല എന്ന അവകാശത്തെ നമുക്ക് സാധൂകരിക്കാം അതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു ശൂന്യമായ ഡിക്ഷ്ണറിയിൽ ആരംഭിക്കാം മാത്രമല്ല ഒരോ അക്ഷരവും അതേ അക്ഷരം തന്നെ എൻട്രിയുമായ ഒരു ഡിക്ഷ്ണറി നമുക്ക് നിർമ്മിക്കാം for l in a b c d e f g h i ആണെന്ന് നമുക്ക് പറയാം dl സമം l ആണ് അതുകൊണ്ട് l ഒരു സ്ട്രിങ്ങ് ആണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ആ സ്ട്രിങ്ങിലെ ഓരോ അക്ഷരത്തിനും ബാധകമാണ് d with key a എന്നാൽ വില a യും d with the key b എന്നാൽ വില b യും ആണെന്ന് പറയാം അതുകൊണ്ട് എന്താണ് da എന്ന് ചോദിച്ചാൽ അത് a ആണെന്നും എന്താണ് di എന്ന് ചോദിച്ചാൽ അത് i ആണെന്നും നിങ്ങൾക്ക് പറയാം a b c d e f g h i എന്ന ക്രമത്തിലാണ് കീകൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക എന്നാൽ d keys പ്രദർശിപ്പിക്കുവാൻ ചോദിച്ചാൽ ക്രമരഹിതമായിട്ടായിക്കും അത് തരുന്നത് അതുകൊണ്ട് e ആദ്യവും a താഴേയ്ക്കും തുടർന്നും കാണാം നിങ്ങൾക്ക് ഇത് ലഭിക്കുവാൻ ഒരു പ്രത്യേക ക്രമം ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് ഡിക്ഷ്ണറിയിൽ കീകൾ ഇൻസേർട്ട് ചെയ്യപ്പെട്ട ക്രമത്തിലായിരിക്കില്ല keys function മുഖേന അത് അവതരിപ്പിച്ചാൽ ലഭിക്കുന്ന ക്രമം എന്ന് പ്രത്യേകം ഊന്നൽ കൊടുക്കുന്നു അതുകൊണ്ട് നിങ്ങൾ keys വേർതിരിച്ച് അത് ഒരു നിശ്ചിത ക്രമത്തിൽ പുറത്ത് വരണമെന്ന് നിങ്ങൾക്ക് അനുമാനിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ ഒരു പ്രത്യേക ക്രമത്തിൽ കീകൾ സംസ്കരിക്കണമെങ്കിൽ അതിന്റെ ആ പ്രത്യേക ക്രമം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് നിങ്ങൾ എപ്പോഴും ഉറപ്പ് വരുത്തുക ഡിക്ഷ്ണറിയിലെ വിലകളിൽ കൂടി കടന്നുപോകുവാനുള്ള മറ്റൊരു മാർഗ്ഗം d values എന്ന് ഉപയോഗിക്കുക എന്നാണ് keys ഏതെങ്കിലും ക്രമത്തിൽ കീകൾ തിരികെ നൽകുന്നു d values ഏതെങ്കിലും ക്രമത്തിൽ വിലകൾ തിരികെ നൽകുന്നു for x in l എന്ന ഉദാഹരണത്തിന് തുല്യമാണിത് അതുകൊണ്ട് നിങ്ങൾക്ക് വിലകളാണ് ലഭിക്കുന്നത് നിങ്ങൾക്ക് അതിന്റെ സ്ഥാനങ്ങളല്ല ലഭിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് വിലകളാണ് ലഭിക്കുന്നത് നിങ്ങൾക്ക് കീകൾ ലഭിക്കുന്നില്ല അതുകൊണ്ട് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ഡിക്ഷ്ണറിയിലെ മുഴുവൻ വിലകളും സങ്കലനം ചെയ്യുവാൻ ആദ്യം total നെ 0 ആയി പ്രാരംഭവില നൽകുക അതിനു ശേഷം ഓരേ വിലയും അതിൻറെ കൂടെ കൂട്ടുക അതുകൊണ്ട് നിങ്ങൾക്ക് test1 values ലെ ഓരോ s ഉം എടുത്ത് total ന്റെ കൂടെ കൂട്ടുക അതുകൊണ്ട് x in l ഉപയോഗിച്ച് x എന്ന വില l എന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ true എന്നും അല്ലെങ്കിൽ false ആയിരിക്കുമെന്ന് നിങ്ങൾ പറയുന്നത് പോലെ in ഓപ്പറേറ്ററുപയോഗിച്ച് നിങ്ങൾക്ക് ഒരു കീ ഡിക്ഷ്ണറിയിലുണ്ടോ എന്ന് പരിശോധിക്കാം ഇതേ കാര്യം കീകളുടെ കാര്യത്തിലും സത്യമാണ് അതുകൊണ്ട് ഓരോ ടെസ്റ്റ് മാച്ചിലും ഓരോ ബാറ്റ്സ്മാനും ബാറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലെങ്കിലും എനിക്ക് അവരുടെ വ്യക്തിഗത സ്കോർ കൂട്ടി കണ്ടുപിടിക്കണം അതുകൊണ്ട് ഡിക്ഷ്ണറിയിൽ പ്രാരംഭവില നൽകി ഓരോ കീയും ഈ സാഹചര്യത്തിൽ ധവാൻ കോഹ്ലി ഞാൻ ഇതിനകം സജ്ജമാക്കിയിട്ടുണ്ട് Total ഒരു ഡിക്ഷ്ണറിയായി ഞാൻ സജ്ജമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ധവാൻ കീ ആയിട്ടുള്ള total 0 ഉം കോഹ്ലി കീ ആയിട്ടുള്ള total 0 ഉം ആണ് നമ്മുടെ നെസ്റ്റഡ് ഡിക്ഷ്ണറിയിലെ ഓരോ മാച്ചിനും ആ മാച്ചിൽ ബാറ്റ്സ്മാനായി ധവാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മാച്ചിൽ ധവാൻ എന്ന പേര് score ലെ key ആയി ദൃശ്യമാകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് score കൂട്ടാം കാരണം അത് ദൃശ്യമാകുന്നില്ലെങ്കിൽ ആ മാച്ചിനെ ആക്സസ് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് ഒരു ഡിക്ഷ്ണറിയിൽ നിന്ന് ഒരു വില നിങ്ങൾ ആക്സസ് ചെയ്യുകയാണെങ്കിൽ ആ കീ യഥാർത്ഥത്തിൽ ഉള്ളതായിരിക്കണം എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തുവാനുള്ള ഒരു മാർഗ്ഗമാണ് in എന്ന ഫംഗ്ഷൻ ഒരു ഡിക്ഷ്ണറിയും ലിസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ഓർമ്മിക്കുവാൻ ഇവിടെ ഒരു മാർഗ്ഗമുണ്ട് ഞാൻ ആരംഭിക്കുന്നത് ശൂന്യമായ ഒരു ഡിക്ഷ്ണറിയുമായിട്ടാണെങ്കിൽ ഇതുവരെ കാണാത്ത ഒരു കീ ഞാൻ നിശ്ചയിക്കുന്നു ഒരു ഡിക്ഷ്ണറിയിൽ അതൊരു പ്രശ്നമല്ല ആ വില ഉപയോഗിച്ച് ഡിക്ഷ്ണറിയിലേക്ക് ഈ കീ ഇൻസേർട്ട് ചെയ്യുന്നതിന് തുല്യമാണത് d0 ഇനിനകം നിലവിലുണ്ടെങ്കിൽ അത് പുതുക്കപ്പെടും അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ പുതുക്കും അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യും ഇത് ലിസ്റ്റുമായി വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് ഒരു ശൂന്യമായ ലിസ്റ്റുണ്ടെങ്കിൽ അതിൽ നിലവിലില്ലാത്ത ഒരു സ്ഥാനത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഒരു index error ലഭിക്കുന്നതാണ് ഇതിനകം ഒരു കീ നിലവുണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചുകൊണ്ട് പുതിയ കീകൾ ഉൾക്കൊള്ളിക്കുവാനോ നിലവിലുള്ള കീകൾ പുതുക്കുവാനോ വഴക്കത്തോടെ ഒരു ഡിക്ഷ്ണറിക്ക് വികസിക്കുവാൻ സാധിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു ലിസ്റ്റിലുള്ളതിനേക്കാൾ ഒരു ഡിക്ഷ്ണറി വളരെ വഴക്കമുള്ള കീകൾക്ക് വിലകളോടുള്ള കൂടിച്ചേരലാണ് മുഴുവൻ കീകളും മാറ്റാൻ പറ്റാത്ത വിലകളായിരിക്കണം എന്ന് മാത്രമാണ് പൈത്തൺ ചുമത്തുന്ന ഒരോയൊരു നിയന്ത്രണം മാറ്റാൻ പറ്റുന്ന വിലകളുള്ള കീകൾ നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കില്ല അതുകൊണ്ട് നമുക്ക് ഡിക്ഷ്ണറികളോ ലിസ്റ്റുകളോ കീകളായി ഉപയോഗിക്കുവാൻ സാധിക്കില്ല എന്നാൽ ഇവയുടെ നിരവധി തലങ്ങളുള്ള നെസ്റ്റഡ് ഡിക്ഷ്ണറികൾ നിങ്ങൾക്കാവാം മറ്റൊരു കാര്യമുള്ളതെന്താണെന്ന് വെച്ചാൽ ഒരു ഡിക്ഷ്ണറി യിലെ മുഴുവൻ കീകളിലും കൂടി വലയം ചെയ്യണമെങ്കിൽ നമുക്ക് d keys എന്ന് ഉപയോഗിക്കാം കൂടാതെ d values എന്നും ഉപയോഗിക്കാം എന്നാൽ ഈ കീകൾ ആവിർഭവിക്കുന്ന ക്രമം എന്താണെന്ന് പ്രവചിക്കാനാവില്ല അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുവാൻ വേണ്ടി ഒരു നിർവ്വചനീയമായ ക്രമത്തിൽ അവയെ സംസ്കരണം നടത്തുന്നത് ഉറപ്പ് വരുത്താൻ നമ്മൾ അതിനെ സോർട്ട് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ടെക്സ്റ്റ് ഫയലുകളിലെ അല്ലെങ്കിൽ പട്ടികകളിലെ വിവരങ്ങൾ കൈകാര്യം ചെയ്യുവാനും കോമയാൽ വേർതിരിക്കപ്പെട്ട പട്ടികകളിലെ വിവരങ്ങളോ സ്പ്രെഡ്ഷീറ്റിലെ കോളങ്ങളുടെ തലവാചകങ്ങൾ പുറത്തെടുത്ത് വിലകൾ കൂട്ടവാനും പൈത്തൺ ഭാഷയെ വളരെ ഉപയോഗപ്രദമാക്കുന്നത് ഡിക്ഷ്ണറികളാണെന്ന് നിങ്ങൾ കാണാൻ പോകുകയാണ് അതുകൊണ്ട് ഡിക്ഷ്ണറിയെപ്പറ്റി മനസ്സിലാക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്ത് നിങ്ങളുടെ പ്രോഗ്രാമിങ്ങിന്റെ കഴിവുകളിൽ അത് ഉൾപ്പെടുത്തുകയും വേണം കാരണം സ്ക്രിപ്റ്റുകൾ എഴുതി കൈകകാര്യം ചെയ്യുവാൻ വളരെ പ്രബലമായ ഒരു ഭാഷയായി പൈത്തണിനെ മാറ്റുന്നത് ഇതാണ്